ഒരു ഇണ്ടക്ടറിലുള്ള പവറും ഊർജ്ജവും ഇനി നമ്മൾ ഒരു ഇണ്ടക്ടറിലുള്ള പവറും ഊർജ്ജവും ആണ് നോക്കാൻ പോകുന്നത് നമ്മൾ ഇത് നേരത്തെ കപ്പാസിറ്ററിനു ചെയ്തതാണ് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വോൾട്ടേജ് കറണ്ട് ബന്ധത്തിൽ നിന്ന് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും കർത്തവ്യം പരസ്പരം മാറ്റിയിട്ടിട്ട് കപ്പാസിറ്ററുകളും ഇണ്ടക്ടറുകളും ഗണിതശാസ്ത്രപരമായി ഒരു പോലെ ആണ് പെരുമാറുന്നത് നമ്മൾ ഇതുപോലത്തെ കാര്യം ഊർജ്ജത്തിന്റെ കാര്യത്തിലും പറയും നമുക്കൊരു വോൾടേജ് V കുറുകെ ഉള്ള ഇണ്ടക്ടർ L ഉണ്ട് കൂടാതെ കറണ്ട് I അതിൽ ഉണ്ട് കൂടാതെ ഏതൊരു രണ്ടു ടെർമിനൽ ഘടകത്തിൽ ഉള്ളപോലെ ഇവിടെയും പവർ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഗുണനഫലം ആണ് പക്ഷെ ഒരു ഇണ്ടക്ടറിൽ നമുക്ക് വോൾടേജ് ഉള്ളത് LdIdt I ഇണ്ടക്ടൻസ് ഇത് ഇവിടെ പകരം വെയ്ക്കുമ്പോൾ നമുക്ക് LdIdtകിട്ടും അപ്പോൾ നേരത്തെ പോലെ ഇത് കുറച്ചു സങ്കീർണ്ണമായി തോന്നുന്നു പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം അപ്പോൾ നിങ്ങൾ ഈ ഗുണനഫലം നോക്കിയാൽ കാണാം ഈ സാധ്യതകളൊക്കെ നമുക്ക് ഉണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ കറണ്ട് 0 എന്നിട്ട് കൂടുകയും ചെയ്യുന്നു ഇതിന്റെ അർത്ഥം ഇതിന്റെ ഡെറിവേറ്റീവും പൂജ്യത്തെക്കാൾ കൂടുതൽ ആണെന്ന് ആണ് എന്നിട്ട് ഇണ്ടക്ടർ പവർ വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ പവർ ഇണ്ടക്ടറിലേക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ I പൂജ്യത്തെക്കാൾ കൂടുതൽ ആണെങ്കിൽ എന്നിട്ട് കുറയുകയാണ് അതാണ് ടൈം ഡെറിവേറ്റീവ് 0 എങ്കിൽ അത് പവർ കൊടുക്കുന്നു I 0 എന്നിട്ട് കൂടുന്നു അതായത് അത് കുറഞ്ഞ തോതിൽ നെഗറ്റീവ് ആകുന്നു എന്നാൽ ടൈം ഡെറിവേറ്റീവ് പൂജ്യത്തെക്കാൾ കൂടുന്നു എന്നിട്ട് പവർ കൊടുക്കുന്നു കാരണം ഒരു നെഗറ്റീവ് കറണ്ടിന്റെയും പോസിറ്റീവ് ഡെറിവേറ്റീവിന്റെയും ഗുണനഫലം ഒരു നെഗറ്റീവ് സംഖ്യ ആകും തരിക അവസാനമായി കുറയുന്ന നെഗറ്റീവ് I പവർ വലിച്ചെടുക്കുന്നു ഇനി കപ്പാസിറ്ററിന്റെ കേസ്സിൽ എനിക്ക് കുറച്ചു വേവ്ഫോം ഉണ്ട് ഞാൻ കാണിച്ചു തന്നു ഇത് എങ്ങനെ സംഭവിക്കാം എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കപ്പാസിറ്ററിന്റെ കേസ്സിലെ പോലെ പക്ഷെ വോൾടേജ് വേവ്ഫോമിനു പകരം കറണ്ടിന്റെ വേവ്ഫോം അപ്പോൾ ഇപ്പോഴെക്കും നിങ്ങൾക്ക് വ്യക്തമായികാണും ഇണ്ടക്ടറിനും പവർ വലിച്ചെടുക്കുകയും ചെയ്യാം കൊടുക്കുകയും ചെയ്യാം എന്ന് ഇനി ഇത് ആക്റ്റീവ് ആണോ പാസ്സീവ് ആണോ എന്ന് നമ്മൾ എങ്ങനെ നിശ്ചയിക്കും വീണ്ടും കപ്പാസിറ്ററിലെ പോലെ തന്നെ നമ്മൾ ഊർജ്ജം ഇണ്ടക്ടർ 0 ത്തിൽ നിന്ന് തുടങ്ങുന്നത് വെച്ചിട്ട് അകത്തേക്ക് വലിച്ചെടുക്കുമോ പുറത്തേക്ക് കൊടുക്കുമോ എന്ന് നോക്കും ഇണ്ടക്ടർ വലിച്ചെടുത്ത ഊർജ്ജം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഊർജ്ജം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സമയ പരിധി വ്യക്തപ്പെടുത്തണം നമുക്ക് ആ സമയ പരിധിയിൽ ഉള്ള പവറിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേഷന്റെ പരിധി എങ്ങനെ വേണം എന്ന് വെച്ചാൽ പരമാവധി സമയ പരിധിയിൽ ഉള്ളതായിരിക്കണം ഇനി ഞാൻ സങ്കൽപ്പിക്കട്ടെ ഇണ്ടക്ടർ ചലിപ്പിക്കുന്നത് കറണ്ട് സ്രോതസ്സ് ആണ് മുൻപ് കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ ഞാൻ കപ്പാസിറ്റർ മാത്രേ കാണിച്ചുള്ളൂ പിന്നെ v എന്ന വോൾടേജ് രൂപം അത് നിങ്ങൾക്ക് വോൾടേജ് സ്രോതസ്സ് ചലിപ്പിക്കുന്ന ഒരു കപ്പാസിറ്റർ ആയിട്ട് കരുതാം ഇവിടെ ചലിപ്പിക്കുന്നത് കറണ്ട് സ്രോതസ്സ് I ഉപയോഗിച്ച് ആണ് അതിനു ചില വ്യത്യാസം ഉണ്ട് I യും t യും സംബന്ധിച്ച് നമുക്ക് പറയാം അത് 0 ത്തിൽ നിന്ന് തുടങ്ങും t1 സമയത്തു അത് IL മൂല്യത്തിലേക്ക് പോകും അപ്പോൾ ഊർജ്ജം തരുന്ന ഇതിന്റെ ഇന്റഗ്രൽ VtItdt LdIdt ആണ് ഇന്റഗ്രേഷൻ ചെയ്യണ്ട സമയ പരിധി 0 മുതൽ t1 വരെ ആണ് നേരത്തെ പോലെ തന്നെ ഇത് കുറച്ചു സങ്കീർണ്ണമാണ് പക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാം ഇത് കറണ്ടിന്റെ സ്ക്വയറിനെ ടൈം ഡെറിവേറ്റീവിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്നു കാരണം ddt2IdIdt അപ്പോൾ ഈ ഇന്റഗ്രൽ L 2 ഇന്റഗ്രൽ 0 തൊട്ട് t1 സമയം വരെ I2 ന്റെ ടൈം ഡെറിവേറ്റീവ് അടിസ്ഥാനപരമായി കറണ്ടിന്റെ സ്ക്വയറിനെ ടൈം ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ ആണ് നമുക്ക് ഉള്ളത് അപ്പോൾ ഇണ്ടക്ടർ വലിച്ചെടുത്ത ഊർജ്ജം ഇത്രയും ആണ് 0 മുതൽ t1 വരെ ഉള്ള സമയപരിധിയിൽ ഇത് I സ്ക്വയറിന്റെ ടൈം ഡെറിവേറ്റീവിന്റെ ഇന്റഗ്രൽ ആണ് അപ്പോൾ സംശയമില്ലാതെ തന്നെ അത് I സ്ക്വയറിന്റെ ഫങ്ക്ഷൻ ആണ് 0 മുതൽ t1 വരെ സമയം 0 മുതൽ t 1 വരെ പോകുമ്പോൾ ഇണ്ടക്ടറിന്റെ കറണ്ട് 0 മുതൽ IL മൂല്യം വരെ പോകുന്നു അപ്പോൾ ഈ സംഖ്യ വേറൊന്നുമല്ല പക്ഷെ 12LIL2 അപ്പോൾ ഈ അന്ത്യഫലം എന്താണ് നമ്മളോട് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഇണ്ടക്ടറിൽ ഉള്ള കറണ്ട് മാറ്റിയാൽ 0 യിൽ നിന്ന് IL ലേക്ക് ഒരു സമയപരിധിയിൽ ഇണ്ടക്ടറിലേക്ക് കൊടുക്കുന്ന ഊർജ്ജം 12LIL2 ആയിരിക്കും കറണ്ട് 0 ത്തിൽനിന്നു IL ലേക്ക് പോകുന്നതിനെ ആശ്രയിക്കുന്നില്ല എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് അതെ ഉത്തരം തന്നെ കിട്ടും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം അതായത് ഒരു ഇണ്ടക്ടർ ILകറണ്ടിനെ വഹിക്കുകയാണെങ്കിൽ അതിൽ ഒരു 12LIL2 ഊർജ്ജം ശേഖരിച്ചിട്ടുണ്ടാകും അപ്പോൾ ഒരു ILകറണ്ടിനെ വഹിക്കുന്ന ഇണ്ടക്ടറിൽ ശേഖരിച്ചിട്ടുള്ള ഊർജ്ജം 12LIL2ആണ് ഇനി കപ്പാസിറ്ററിലെ പോലെ തന്നെ ഇണ്ടക്ടർ കറണ്ട് എടുത്താലും 0 ത്തിൽ നിന്ന് IL മൂല്യം വരെ അത് ഒരു അളവ് വരെ ഊർജ്ജം വലിച്ചെടുക്കും എന്നിട്ട് അവ എല്ലാം തിരിച്ചു കൊടുക്കും അതിനാൽ നമുക്ക് പറയാം കറണ്ട് പൂജ്യത്തിലേക്ക് തിരിച്ച പോകും എന്നിട്ട് ഈ എല്ലാ ഊർജ്ജവും തിരിച്ചു വരും ഇണ്ടക്ടറിൽ നിന്ന് ബാക്കി സർക്യൂട്ടിലേക്ക് പക്ഷെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇണ്ടക്ടറിന് ഊർജ്ജം വലിച്ചെടുക്കാൻ മാത്രമേ പറ്റൂ കാരണം നിങ്ങൾ ഊർജ്ജത്തിന്റെ പദപ്രയോഗം നോക്കിയാൽ കാണാം നമുക്ക് IL2 ഉണ്ട് അതായത് എപ്പോഴും പോസിറ്റീവ് ആയ ഒരു സംഖ്യ അപ്പോൾ അത് എപ്പോഴും ഊർജ്ജം വലിച്ചെടുക്കുന്നു കൂടാതെ ഒരു കപ്പാസിറ്ററിനെയോ റെസിസ്റ്ററിനെയോ പോലെ അതൊരു പാസ്സീവ് ഘടകവും ആണ് റെസിസ്റ്ററിൽ നിന്ന് വ്യത്യാസപെട്ട് അത് ഊർജ്ജം പുറത്തേക്ക് കളയുന്നില്ല അത് ഊർജ്ജം സംഭരിക്കുന്നതെ ഉള്ളു ഇത് വീണ്ടെടുക്കാൻ കഴിയുന്നത് ആണ് അതിനാൽ ഇണ്ടക്ടർ ഒരു പാസ്സീവ് ഘടകം ആണ് അതിനാൽ പല രീതിയിലും കപ്പാസിറ്ററിലെ പോലെ തന്നെ ഞാൻ കുറെ കൂടി വിശദീകരണത്തിലേക്ക് പോയി വേഗത്തിലും ആണ് നീങ്ങിയത് കാരണം ഗണിതശാസ്ത്രപരമായി ഇവ രണ്ടും ഒരുപോലെയാണ് അതിനാൽ ഇപ്പോൾ ഞാൻ വേഗം ഇണ്ടക്ടറിലെ ഊർജത്തിന്റെ സംഖ്യാപരമായ ഉദാഹരണം എടുക്കാം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 1 മില്ലി ഹെൻറി ഇണ്ടക്ടർ ഉണ്ട് കൂടാതെ അത് ഇതുപോലത്തെ കറണ്ട് സ്രോതസ്സ് ആണ് ചലിപ്പിക്കുന്നത് കറണ്ടിന് ഒരു വേവ്ഫോം ഉണ്ട് നർമ്മസംഭാഷണത്തിനു വേണ്ടി ഞാൻ പറയട്ടെ കറണ്ട് 0 ത്തിനു മുൻപേ 0 ആണ് അത് നെഗറ്റീവും ആകും അത് കുറച്ചു സമയം കഴിഞ്ഞും ഈ മൂല്യത്തിൽ തന്നെ നില്കും അപ്പോൾ നമുക്ക് പറയാം കറണ്ട് 0 തൊട്ട് 10 മില്ലി ആംപിയർ വരെ മാറുന്നു 100 മൈക്രോസെക്കൻഡ് സമയത്തിനുള്ളിൽ കൂടാതെ അത് t 100 മൈക്രോസെക്കൻഡ് കഴിഞ്ഞിട്ടും 10 മില്ലി ആംപിയറിൽ തന്നെ നില്കുന്നു അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള എല്ലാ കണക്കുകൂട്ടലും ചെയ്യാം ഇത് വെച്ചിട്ട് ഈ പൊളാരിറ്റിയിൽ ഇണ്ടക്ടറിന് കുറുകെ ഉള്ള വോൾടേജ് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് അറിയാം v ഫൈവിന്റെ ഡെറിവേറ്റീവിന്റെ L തവണ ആണെന്ന് അപ്പോൾ സ്പഷ്ടമായി 0 നു തുല്യമാകുന്നതിനു മുന്നേ കറണ്ട് വോൾട്ടേജിനെ മാറ്റുന്നു അത് പൂജ്യം ആണ് t 100 മൈക്രോസെക്കൻഡ് കഴിഞ്ഞു വീണ്ടും കറണ്ട് കോൺസ്റ്റന്റ് ആകുമ്പോൾ വോൾടേജ് 0 ആകും ഇതിനു രണ്ടിന്റെയും ഇടയിൽ 0 മുതൽ 100 മൈക്രോസെക്കൻഡ് വരെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ഉണ്ട് ഇത് ഇണ്ടക്ടറിൽ ഉള്ള ഒരു കോൺസ്റ്റന്റ് കറണ്ടിനു സദൃശമായിട്ടാണ് എന്ത്രയാണ് ആ കറണ്ട് ഞാൻ അതിനെ നേർരേഖ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പം ആണ് അത് 100 മൈക്രോസെക്കന്ഡിൽ 1 മില്ലി ഹെൻറി തവണ 10 മില്ലിആംപിയറിന്റെ മാറ്റം അനുസരിച്ചാണ് ഇത് അവസാനം 0 1 വോൾട്ട് ആകും അത് 0 1 വോൾട്ട് ആണ് നമുക്ക് തത്ക്ഷണമായിട്ടുള്ള പവറും സമയവും വരയ്ക്കാം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു t 0 ആകുന്നതിനു മുന്നെയും t 100 മൈക്രോസെക്കൻഡ്സ് ആയി കഴിഞ്ഞും വോൾടേജ് 0 ആയിരിക്കും എന്ന് സ്പഷ്ടമാണ് അപ്പോൾ വോൾട്ടേജ് തവണ കറണ്ടിന്റെ ഗുണനഫലവും പൂജ്യം ആയിരിക്കും കൂടാതെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ അതായത് 0 ത്തിന്റെയും 100 മൈക്രോസെക്കൻന്റിന്റെയും ഇടയിൽ ഈ കോൺസ്റ്റന്റിന്റെയും നേർരേഖയുടെയും ഗുണനഫലം ആയിരിക്കും കിട്ടുക അപ്പോൾ അത് പോസിറ്റീവ് മൂല്യം ഉള്ള നേർരേഖ ആയിരിക്കും കാരണം കറണ്ടും വോൾടേജ്ജും രണ്ടും നെഗറ്റീവ് ആണ് കൂടാതെ ഈ മൂല്യം ഇത് രണ്ടിന്റെയും ഗുണനഫലം ആണ് അത് 10 മില്ലി വാട്ട്സ് ആണ് ആയിത്തീരുക പതിവ്പോലെ ഊർജ്ജം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ പവർ സമയപരിധിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം ഏത് പരിധി വേണമെങ്കിലും എടുക്കാം പക്ഷെ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം ഇത് ചെയ്യാൻ ഒരു എളുപ്പവഴി ഉണ്ടെന്നു അപ്പോൾ നമുക്ക് പറയാം നമ്മൾ ഇണ്ടക്ടറിൽ കരുതുന്ന ഊർജ്ജം t 100 മൈക്രോസെക്കന്റിൽ ആണ് നമ്മൾ ആകെ ചെയ്യേണ്ടത് 1 2 LIL2 കണ്ടുപിടിക്കുക അവിടെ IL കറണ്ട് ആണ് t 100 മൈക്രോസെക്കന്റിൽ ഇത് പകുതി തവണ 1 മില്ലി ഹെൻറി തവണ IL ആയിത്തീരും അതായത് 10 2 സ്ക്വയർ ആംപിയർ അപ്പോൾ ഈ സംഖ്യ 10 7 ബൈ 2 ജൂൾസ് അല്ലെങ്കിൽ അടിസ്ഥാനമായി 50 നാനോ ജൂൾസ് ഊർജ്ജം അപ്പോൾ ഇതാണ് ഇണ്ടക്ടറിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം ഇനി നിങ്ങൾക്ക് ഇതേ കണക്കുകൂട്ടൽ തന്നെ വോൾട്ടേജിലും പവറിലും ഊർജ്ജത്തിലും കറണ്ടിന്റെ മാറ്റത്തിന് അനുസരിച്ചു കണ്ടുപിടിക്കുവാൻ കഴിയണം